സുപ്രഭാതം എഞ്ചിനീയറിംഗ് മെട്രോളജി സംബന്ധിച്ച കോഴ്സിലേക്ക് സ്വാഗതം എഞ്ചിനീയറിംഗ് മെട്രോളജിയിൽ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഭാഗം നമ്മൾ ചർച്ചചെയ്തു ഈ പ്രഭാഷണത്തിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബൂഷൻസിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യും ഫ്രിക്യുഎൻസി ഡിസ്ട്രിബൂഷൻസ് എന്തൊക്കെയാണ് ഒരു ഫ്രിക്യുഎൻസി ഡിസ്ട്രിബൂഷൻ എങ്ങനെ നിർമിക്കാം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ കണ്ടുവല്ലോ സ്ഥിതിവിവരക്കണക്കുകൾ പോലെ മെട്രോളജിയിൽ ഉപയോഗിക്കുന്നതോ അല്ലാത്തതോ ആയ ഒന്നിലധികം വിതരണങ്ങളുണ്ട് എന്നാൽ ഞാൻ ഇവിടെ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉള്ളടക്കം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ആവശ്യകതയെ കുറിച്ച് ആയിരിക്കും നമുക്കു അവയെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനുകൾ എന്നും വിളിക്കാം തുടർന്ന് കുറച്ച് ഡിസ്ട്രിബൂഷൻസ് പോയിസ്സോൻ ആൻഡ് ബൈനോമിയൽ ഡിസ്ട്രിബൂഷൻസ് ലോഗ് നോർമൽ റെക്ടറാങ്കുലർ ത്രികോണ നോർമൽ ഡിസ്ട്രിബൂഷൻ എന്നിവയെ പറ്റി കൂടുതൽ കാണാം ഈ പ്രഭാഷണത്തിൽ ഞാൻ ഈ വിതരണങ്ങൾ അവതരിപ്പിക്കും നോർമൽ ബൈനോമിയൽ ചൈ സ്ക്വയർ ഡിസ്ട്രിബൂഷൻസ് എന്നിവ നമുക്കു അടുത്ത പ്രഭാഷണത്തിൽ കാണാം ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഡിസ്ട്രിബൂഷൻസ് എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നതിനെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നേടാനും നമുക്കു ശ്രമിക്കാം എന്താണ് ഡിസ്ട്രിബൂഷൻസ് മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുകൾ ഒരു ഫംഗ്ഷനോ ടേബിളോ ആണ് അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ ഫലവും അതിന്റെ ആവൃത്തിയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു സമവാക്യമാണിത് അതിനാൽ ഒരു സംഭവത്തിന്റെ ഫലം എന്താണ് ഇത് ആവൃത്തിയാണ് നിർദ്ദിഷ്ട ആവൃത്തി എത്ര തവണ സംഭവിച്ചുവെന്നത് ഇവിടെ ഒരു ഫലമാണ് ഇപ്പോൾ നമുക്ക് എല്ലാ വിതരണങ്ങളും ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് പോയിസ്സോൻ ബൈനോമിയൽ ലോഗ് നോർമൽ റെക്ടറാങ്കുലർ ത്രികോണ ഡിസ്ട്രിബൂഷൻസ് വേണ്ടത് ഇവിടെ പോയിസ്സോൻ ബൈനോമിയൽ ഡിസ്ട്രിബൂഷൻ ഞാൻ ഡിസ്ക്രീറ്റ് വ്യൂപോയിന്റിൽ ആണ് കാണിക്കുന്നത് പക്ഷെ അത് കണ്ടിന്യൂവസ് ഡാറ്റക്കും ഉപയോഗിക്കാം ഇവക്കു പകരം കണ്ടിന്യൂവസ് ബൈനോമിയൽ ഡിസ്ട്രിബൂഷനോ ഡിസ്ക്രീറ്റ് നോർമൽ ഡിസ്ട്രിബൂഷനോ ആവാം പക്ഷെ ഡിസ്ക്രീറ്റ് ഡാറ്റക്കു വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്നത് പോയിസ്സോൻ ബൈനോമിയൽ ഡിസ്ട്രിബൂഷൻസ് ആണ് കണ്ടിന്യൂവസ് ഡാറ്റക്ക് വേണ്ടി നോർമൽ ഡിട്രിബൂഷൻ ഉപയോഗിക്കുന്നു നമ്മൾ നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ എന്തു സംഭവിക്കുന്നു നമുക്ക് "ഗോ നോ ഗോ ഗേജ്" ഉള്ളതുപോലെ വ്യത്യസ്ത തരം കണക്കുകൂട്ടലുകൾ ഉണ്ട് വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ അളവുകൾ എടുക്കാം ദൈർഘ്യം താപനില പ്രഷർ സ്ട്രെയിൻ ഫോഴ്സ് ഇവ എങ്ങനെ അളക്കാം എന്ന് നമുക്ക് കാണാം ഈ മൂല്യങ്ങളിൽ ഭൂരിഭാഗവും കണ്ടിന്യൂവസ് ആയിരിക്കും വ്യാവസായിക അളവുകൾ നിരന്തരവും തുടർച്ചയും ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ അത് തുടർച്ചയായിരിക്കാം പക്ഷേ ഉയരത്തിന്റെ വാല്യൂ നോക്കുന്ന രീതി മാത്രമല്ല ഇത് ഉദാഹരണത്തിന് നമുക്ക് ഗോ നോ ഗോ ഗേജ്ൽ കടക്കും അല്ലെങ്കിൽ കടക്കാതിരിക്കും നിർമ്മിച്ച ഉൽപ്പന്നം സ്വീകാര്യമാണോ അല്ലയോ ഡിഫെക്ടിവ് ആണോ അല്ലെങ്കിൽ തകരാറില്ലാത്തതാണോ എന്ന് എനിക്ക് പറയാൻ കഴിയും ഇത് 0 1 0 1 ഒരു ബൈനറി ഡാറ്റയാണ് അപ്പോൾ ഏത് ഡിസ്ട്രിബൂഷൻ ആണ് ഇവിടെ യോജിക്കുക ഒരു ഇടവേള നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ സമയ ഇടവേളയോ നിരീക്ഷണ സ്ഥലമോ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതായതു ഒരാഴ്ചയ്ക്കുള്ളിൽ ഡിഫെക്ടിവ് സെക്ടർ എത്ര തവണ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഡിഫെക്ടിവ് സെക്ടർ എത്ര തവണ സംഭവിക്കുന്നു മണിക്കൂറിൽ എത്ര ഡിഫെക്ടിവ് പീസുകൾ അല്ലെങ്കിൽ 20 പീസുകൾക്കു എത്ര ഡിഫെക്ടിവ് പീസുകൾ ഉണ്ടാകും അത്തരം സന്ദർഭങ്ങളിൽ സമയ ഇടം നിശ്ചയിക്കുമ്പോൾ നമുക്കു അതിനുള്ള വിതരണമുണ്ട് ചിലപ്പോൾ നമുക്ക് ധാരാളം ഡാറ്റ ഇല്ലായിരിക്കാം അല്ലെങ്കിൽ വിതരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയില്ലായിരിക്കാം ഇത് അറിവില്ലായ്മയോ വിവരങ്ങളുടെ അഭാവമോ ആണ് അങ്ങനെയെങ്കിൽ നമുക്ക് യൂണിഫോമോ ത്രികോണമോ ആയ ഡിസ്ട്രിബൂഷൻസ് ഉപയോഗിക്കാം നമ്മൾ എടുത്ത നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി വിതരണം ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് Type equation here ഇപ്പോൾ ഇവിടെ ആദ്യം ചർച്ച ചെയ്യേണ്ടത് പോയിസ്സോൻ ഡിസ്ട്രിബൂഷൻസ് ആണ് ഇവിടെ ഇവന്റുകൾ ക്രമരഹിതമായി സംഭവിക്കുന്നു P എന്നത് 't 'സമയത്ത് x ഇവന്റുകൾ നിരീക്ഷിക്കാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു λ ഇവിടെ x നെ സൂചിപ്പിക്കുന്നു അപ്പോൾ പോയിസ്സോൻ ഡിസ്ട്രിബൂഷൻ എന്താണ് ഒരു ഇവന്റിലെ പോയിസ്സോൻ ഡിസ്ട്രിബൂഷൻസ് 0 1 അല്ലെങ്കിൽ 2 ഇടവേളകളിൽ നിരവധി തവണ സംഭവിക്കാം ചില സംഭവങ്ങൾ ഒരു ഇടവേളയിൽ സംഭവിക്കുന്നു ഉദാഹരണമായി നിർമ്മാണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനിൽ കുറച്ച് നോയ്സ് ഉണ്ടെന്ന് ഞാൻ പറയട്ടെ ഒരു മണിക്കൂറിനുള്ളിൽ നിർദ്ദിഷ്ട പീക്ക് നോയ്സ് മൂല്യം എത്ര തവണ സംഭവിക്കുന്നു അല്ലെങ്കിൽ അതിനിടയിൽ എത്ര തവണ പ്രവർത്തനം ശല്യപ്പെടുത്തുന്നു

ഇതുപോലുള്ള ഒന്നിലധികം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിനാൽ ഇടവേള എവിടെ നിശ്ചയിച്ചിരിക്കുന്നു എന്നതാണ് കാര്യം ശരാശരി ഇവന്റുകളുടെ എണ്ണം ഇവിടെ 𝝀 ആണ് അതായത് ഒരു ഇടവേളയിലെ ഇവന്റുകളുടെ ശരാശരി എണ്ണം 𝝀 ലാംഡ ആണ് അതിനാൽ എനിക്ക് ഇവന്റ് റേറ്റ് എന്ന് വിളിക്കാം ലാംഡയെ ഇവന്റ് നിരക്ക് റേറ്റ് പാരാമീറ്റർ എന്നും വിളിക്കുന്നു അതിനാൽ ഒരു ഇടവേളയിൽ 'k' ഇവന്റുകൾ നിരീക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു P e λkk ഇത് പോയിസ്സോൻ ഡിസ്ട്രിബൂഷൻ ആണ് അതിനാൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആദ്യ പ്രയോഗം കുതിര ചവിട്ടിനാൽ ആകസ്മികമായി കൊല്ലപ്പെട്ട സൈനികരുടെ ഡാറ്റാ ഉപയോഗിച്ച് ചെയ്തു നോക്കാം ഇതൊരു ഉദാഹരണമായിരുന്നു ഒരു മാസത്തിനുള്ളിൽ സംഭവിക്കുന്ന നിർദ്ദിഷ്ട കുറ്റകൃത്യങ്ങളുടെ എണ്ണം പോയിസൺ വിതരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയും എനിക്ക് മറ്റ് ചില ഉദാഹരണങ്ങൾ ഇവിടെ നൽകാം സേവന കേന്ദ്രത്തിൽ സേവനത്തിനായി ഒരു മണിക്കൂറിനുള്ളിൽ എത്തുന്ന കാറുകളുടെ എണ്ണം പ്ലോട്ട് ചെയ്യാൻ നമുക്കു കഴിയും മറ്റൊരു ഉദാഹരണം ഒരു യന്ത്രം ഒരു ദിവസം നിർമ്മിക്കുന്ന ഡിഫെക്ടിവ് പീസുകളുടെ എണ്ണം ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി പോകുന്ന രോഗികളുടെ എണ്ണം പോലും നമുക്ക് പറയാൻ കഴിയും പോയസൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് ഈ തരം ഡാറ്റകളെ പ്രതിനിധീകരിക്കാം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമുക്കു വിവിധ രൂപത്തിൽ വരക്കാം ലാംഡയുടെ𝝀 മൂല്യം അനുസരിച്ച് പോയിസൺ ഡിസ്ട്രിബ്യൂഷനും ഇതുപോലെയാകാം അതിനാൽ ലാംഡയുടെ𝝀 മൂല്യം ചെറുതാണെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വളരെ വളഞ്ഞു കാണപ്പെടുന്നു ഇവിടെ ലാംഡ 𝝀 1 ന് തുല്യമാണ് ഒരു സാധാരണ ഡിസ്ട്രിബ്യൂഷൻ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഈ സ്ക്യൂനെസ് വിശദമായി പറയാം അതിനാൽ ലാംഡയുടെ𝝀 മൂല്യം 1 ആകുമ്പോൾ ഇത് വളരെ പോസിറ്റീവായി വളഞ്ഞ ഒരു വിതരണമാണ് ലാംഡയുടെ𝝀 മൂല്യം 1 നേക്കാൾ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ലാംഡ𝝀 4 ന് തുല്യമാണെങ്കിൽ വിതരണത്തിന് എവിടെയെങ്കിലും ഇതുപോലുള്ള ചില മൂല്യങ്ങൾ എടുക്കാം അതിനാൽ ഇത് k ആണ് ഇവിടെ മൂല്യമുള്ള മാപ്പ് 20 തവണയിൽ 0 മടങ്ങ് ഉള്ളതിനാൽ ഞാൻ ഇത് 20 ൽ നിന്ന് എടുക്കുന്നു ഇത് 4 ന് തുല്യമായ ലാംഡയ്ക്കാണ്𝝀 അതിനാൽ ലാംഡ𝝀 4 നെക്കാൾ വലുതാണ് അല്ലെങ്കിൽ ലാംഡ𝝀 10 ന് തുല്യമാണെങ്കിൽ ഇത് ഇതുപോലെയായിരിക്കും ഇത് നോർമൽ ഡിസ്ട്രിബൂഷനു സമീപമായിരിക്കും പോയിസൺ ഡിസ്ട്രിബൂഷന്റെ സ്വഭാവമോ പെരുമാറ്റമോ ഇതാണ് അതിനാൽ പരിമിതമായ അളവുകളുടെ അടിസ്ഥാനത്തിൽ വേരിയബിളിന്റെ ശരാശരി മൂല്യം എന്താണ് ഈ മൂല്യം മുഴുവൻ കൂട്ടത്തെ എങ്ങനെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ കണ്ടെത്തിയ വ്യതിയാനങ്ങൾ ചർച്ച ചെയ്തു പങ്കിടുക പോപുലേഷനിൽ ടോളറൻസ് പുലർത്താൻ നമുക്ക് കഴിയും അല്ലെങ്കിൽ ഈ ഫലങ്ങൾ എത്രത്തോളം മികച്ചതാണ് പോപുലേഷന് ഈ വിതരണം പ്രധാനമായും സംഭവിക്കുന്നു ഈ വിതരണം വികസിപ്പിക്കുന്നതിന് ആയിരിക്കാം 1000 പരീക്ഷണങ്ങൾ നടത്തിയത് നമുക്കു പരിമിതമായ സാമ്പിൾ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ നിരവധി ഡിഫെക്ടസ് പോലെ ഉള്ള സാമ്പിൾ തിരഞ്ഞെടുക്കുന്നു അതിനുള്ള വിവിധ വിതരണം നോക്കാം നമ്മൾ 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ തിരഞ്ഞെടുക്കാം മണിക്കൂറിൽ 5 ഡിഫെക്ടസ് ഒരുപക്ഷേ നമ്പർ 1 മണിക്കൂറിൽ 5 ഡിഫെക്ടസ് നമ്പർ 2 എന്നത് മണിക്കൂറിൽ 2 ഡിഫെക്ടസ് മണിക്കൂറിൽ 3 ഡിഫെക്ടസ് എന്നിങ്ങനെയുള്ള സാംപിളുകൾ നമ്മൾ ഇതുപോലുള്ള 10 ഇനങ്ങളുടെ ഒരു സാമ്പിൾ തിരഞ്ഞെടുത്തു ഇപ്പോൾ ഞങ്ങളുടെ സാമ്പിൾ ജനസംഖ്യയുമായി എത്രത്തോളം ശരിയാക്കുന്നു കർവ് ഫിറ്റിംഗ് ഇവിടെ എത്ര നന്നായി സംഭവിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ആ ഇടവേള അടിസ്ഥാനമാക്കി ഒരു നിശ്ചിത സമയത്ത് സംഭവിക്കുന്ന സംഭവങ്ങൾക്ക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും അനുയോജ്യമാണ് അതിനാൽ ഈ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനുകളിൽ ഇത് സംഭവിക്കുന്നു അതിനാൽ എന്താണ് ലക്ഷ്യം പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനുകളുടെ ടാർഗെറ്റ് ഇവിടെ സ്ഥാപിക്കാൻ ഞാൻ പദ്ധതിയിടുന്നു അളന്ന ഡാറ്റയുടെ ശരാശരി നമ്മോട് പറയുന്ന ഒരു പ്രതിനിധി മൂല്യം സൃഷ്ടിക്കുക എന്നതാണ് പ്രോബബിലിറ്റി വിതരണങ്ങളുടെ ഉദ്ദേശ്യം നിങ്ങളുടെ ടാർഗെറ്റ് മൂല്യത്തിനടുത്തായി ഒരൊറ്റ പ്രതിനിധി മൂല്യം നേടുക എന്നതാണ് ആദ്യ ലക്ഷ്യം ഈ പ്രതിനിധി മൂല്യം അളന്ന ഡാറ്റ സെറ്റിലെ വ്യതിയാനത്തിന്റെ അളവ് നൽകണം മൂന്നാമത്തെ ഉദ്ദേശ്യം ഡാറ്റാ സെറ്റിന്റെ ശരാശരി മുഴുവൻ ജനസംഖ്യയുടെയും യഥാർത്ഥ ശരാശരി മൂല്യത്തെ എത്ര നന്നായി പ്രതിനിധീകരിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം ഞാൻ പറഞ്ഞതുപോലെ മൊത്തം ജനസംഖ്യയുടെ യഥാർത്ഥ ശരാശരിയെ പ്രതിനിധീകരിക്കുന്ന സാമ്പിളിന്റെ ശരാശരി എത്രത്തോളം നന്നായിരിക്കും ജനസംഖ്യയുടെ യഥാർത്ഥ ശരാശരി മൂല്യം ഉള്ള ഒരു ഇടവേള നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് ഈ ഇടവേള ഈ റാൻഡം എററിന്റെ സാധ്യതയുള്ള പരിധിയെ കണക്കാക്കുന്നു ഇതിനെ റാൻഡം അൺസെര്ടിനിറ്റി എന്ന് വിളിക്കുന്നു അതിനാൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആപ്ലിക്കേഷനും ഉപയോഗവും പ്രയോഗക്ഷമതയും സംബന്ധിച്ച് നമ്മൾ കൂടുതൽ അറിയേണ്ടതുണ്ട് ഇപ്പോൾ അടുത്തത് ബൈനോമിയൽ ഡിസ്ട്രിബൂഷൻ ആണ് N സ്വതന്ത്ര പരിശോധനകൾക്കിടയിൽ ഒരു പ്രത്യേക ഫലത്തിന്റെ സംഭവങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഏതെങ്കിലും ഫലത്തിന്റെ സാധ്യത P യ്ക്ക് തുല്യമാകുമ്പോൾ ഇത് സാഹചര്യങ്ങളെ വിവരിക്കുന്നു Probability to get exact k success P xk nCnpkn k Where p success 1 p no success റാൻഡം വേരിയബിൾ 'x' ഒരു ബൈനോമിയൽ ഡിസ്ട്രിബൂഷനെ പ്രതിനിധീകരിക്കുന്നു സംഭവത്തിന്റെ എണ്ണം n ഉം വിജയത്തിന്റെ സാധ്യത p ഉം ആണ് അതിനാൽ കൃത്യമായ k വിജയം നേടാനുള്ള സാധ്യത ഇതാണ് ഒരു വ്യവസായത്തിൽ ഗുണനിലവാരം അളക്കുന്നത് എല്ലായ്പ്പോഴും സാധ്യമല്ല അത്തരം സാഹചര്യങ്ങളിൽ ഗുണനിലവാരം തൃപ്തികരമോ തൃപ്തികരമല്ലാത്തതോ ആണെന്ന് പറയാം നമുക്ക് ഗോ നോ ഗോ ഗേജ് ഉപയോഗിച്ച് ഡിഫെക്ടിവ് നോട്ട് ഡിഫെക്ടിവ് കണ്ടെത്താം നമുക്ക് എടുക്കേണ്ട അളവുകൾ എല്ലായ്പ്പോഴും നമുക്കു കണക്കാക്കാൻ കഴിയില്ല തുടർച്ചയായ തീയതിക്കായി ഞാൻ അളവുകൾ എടുക്കുകയാണെങ്കിൽ അത് ഒരു നിർദ്ദിഷ്ട മൂല്യമായിരിക്കും ഇത് വിജയമാണോ പരാജയമാണോ എന്ന് പറയുന്നത് എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും സാധാരണമായ പദങ്ങളാണ് വിജയം അംഗീകരിക്കാൻ കഴിയും ഫലം തകരാറിലല്ലെങ്കിൽ " ഗോ നോ ഗോ" എന്നിവ ഉപയോഗിക്കാം അതിനാൽ ഇത്തരത്തിലുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബൂഷൻ ഉപയോഗിക്കുന്നു ഈ സാഹചര്യത്തിൽ ഗുണനിലവാരം അളക്കാൻ കഴിയുമെങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്ന അളവുകൾ എടുക്കാൻ കൂടുതൽ സമയമില്ല മറ്റൊരു തരത്തിൽ റിസോഴ്സ് ചിലപ്പോൾ പരിമിതമാണെന്നും എനിക്ക് അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയേണ്ടതുണ്ട് അതിനാൽ ഗോനോ ഗോ" ഗേജുകൾ സജ്ജമാക്കി അതിനാൽ ഇവ ആട്രിബ്യൂട്ടുകൾ എന്നറിയപ്പെടുന്നു അതിനാൽ ആട്രിബ്യൂട്ട് തരത്തിലുള്ള പരിശോധനയ്ക്ക് ഇത് യഥാർത്ഥത്തിൽ ബാധകമാണ് അളവുകൾക്കനുസരിച്ചുള്ള പരിശോധനയെ വേരിയബിൾ ഇൻസ്പെക്ഷൻ എന്ന് വിളിക്കുന്നു അത് ആട്രിബ്യൂട്ട് ഇൻസ്പെക്ഷൻ ആണ് ഇത് നിയന്ത്രണ ചാർട്ടുകളിൽ ചെയ്യാൻ കഴിയും ഗുണപരമായ ഡാറ്റയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആട്രിബ്യൂട്ട് പരിശോധന എന്താണെന്നതിനെക്കുറിച്ച് ഞാൻ ഒരു ഹ്രസ്വ ആശയം നൽകും വേരിയബിൾ ഇൻസ്പെക്ഷൻ എന്നത് ഒരു തരം ആട്രിബ്യൂട്ട് പരിശോധനയാണ് അത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് അതിനാൽ പോയിസ്സോൻസ് ഡാറ്റാക്ക് മുമ്പായി ബൈനോമിയൽ ഡാറ്റ പറയുന്നു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബൂഷന് വേണ്ടി ഇവ കൂടുതൽ ഉപയോഗിക്കുന്നു ബൈനോമിയൽ ഡിസ്ട്രിബൂഷന്റെ ശരിയാക്കിയ പതിപ്പായ മറ്റൊരു പദമുണ്ട് അത് ഡിഫെക്ടിവോ പ്രൊപോർഷൻ ഡിഫെക്ടിവോ ആകാം അല്ലെങ്കിൽ അതിനെ ഫ്രാക്ഷൻ ഡിഫെക്ടിവ് എന്നോ പ്രൊപോർഷൻ ഡിഫെക്ടിവ് എന്നോ വിളിക്കാം ഉദാഹരണത്തിന് മൊത്തം ഉൽപാദനത്തിൽ ചില ഫ്രാക്ഷൻ ഡിഫെക്ടിവിസ് ഉണ്ടെന്നിരിക്കട്ടെ നമ്മുടെ ഫ്രാക്ഷൻ ഡിഫെക്ടിവ് ഔട്ട്പുട്ട് 0 02 ആണെങ്കിൽ അതായത് 100 ൽ 2 എണ്ണം ഡിഫെക്ടിവ് ആണ് ഇപ്പോൾ ഉൽപാദനം ഒരുപാട് ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നുവെന്നും മൊത്തം ഉൽപാദനം വലുതാണെന്നും കണക്കാക്കപ്പെടുന്നു മൊത്തം ഉൽപാദനത്തിന്റെ ഒരു ഭാഗമാണ് ദിവസത്തെ ഉൽപാദനം അത് ഇപ്പോൾ ഒരു മാസത്തിൽ സംഭവിക്കുന്ന മൊത്തത്തിലുള്ള ഉൽപാദനമാണ് അതിനാൽ ഇത് 100 ൽ 2 എന്നത് ഒരു ചെറിയ സംഖ്യ മാത്രമാണ് അതിനാൽ എനിക്ക് 2 ഡിഫെക്ടിവ് 98 നോൺ ഡിഫെക്ടിവും എന്നും പറയാൻ കഴിയും ഈ സാഹചര്യത്തിൽ ഞാൻ മുഴുവൻ പോപുലേഷനും എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിക്കും ഒരു ദിവസം 1000 യൂണിറ്റുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നുവെങ്കിൽ 2 ശതമാനം എന്നാൽ 20 യൂണിറ്റുകൾ ഇത് വ്യത്യാസപ്പെടാം അതായത് ഒരു ദിവസം 20 യൂണിറ്റുകൾ തകരാറിലായാൽ മറ്റൊരു ദിവസം അത് 19 യൂണിറ്റായിരിക്കാം ഒരു ദിവസം അത് 21 യൂണിറ്റ് ആകാം ഒരു ദിവസം അത് 18 മുതൽ 22 വരെ അല്ലെങ്കിൽ 23 എന്തെങ്കിലും വ്യത്യാസപ്പെടാം അതിനാൽ ഒരു നിശ്ചിത ദിവസത്തിൽ 50 ഡിഫെക്ടിവ്സ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഭയപ്പെടുത്തുന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ കണക്കാക്കിയ ശരാശരി 20 ആണ് അതുകൊണ്ട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഉദ്ദേശ്യം ശരാശരി കണ്ടെത്തുകയും പോപുലേഷനിൽ നമ്മുടെ ശരാശരി അനുയോജ്യമാണോ എന്ന് നോക്കുകയുമാണ് ഇപ്പോൾ 20 ശരാശരിയാണ് അതും 18 മുതൽ 22 വരെ വേരിയബിളിറ്റി നിങ്ങളുടേതാണ് ഒരു ദിവസം എനിക്ക് 50 ഡിഫെക്ടിവിസ് ഉണ്ടെങ്കിൽ ഇത് ഭയപ്പെടുത്തുന്നതാണ് നിയുക്തമാക്കാവുന്ന ചില കാരണങ്ങളാൽ ചില ഡിറ്റീരിയോറൈസേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അസൈൻ ചെയ്യാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇത് കണ്ടെത്തുക അല്ലാത്തപക്ഷം റാൻഡം വേരിയേഷൻ നിയുക്തമാക്കാത്ത കാരണങ്ങളാൽ സംഭവിക്കുന്നു ഇവ നിയമാനുസൃതമായ കാരണങ്ങൾ ചിട്ടയായ എറർ അല്ലെങ്കിൽ ക്രമരഹിതമായ എറർ ആകാം നിങ്ങൾ വിതരണങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്ഥിതിവിവരക്കണക്കുകളിൽ നമ്മൾ വീണ്ടും സംസാരിക്കുമ്പോഴോ ആണ് ഈ ക്രമരഹിതമായ എറർ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് അതിനാൽ നിയുക്തമാക്കാവുന്ന കാരണങ്ങൾ ഉണ്ടെങ്കിൽ 20 മുതൽ 50 വരെ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ചില വലിയ കാരണങ്ങളുണ്ടാകാം അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് ഒരുപക്ഷേ മെഷീന് ചില ഡിറ്ററോടെറൈസേഷൻ സംഭവിക്കാം ഒരുപക്ഷേ ചില സജ്ജീകരണം അല്പം മാറിയിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷേ ജോലി ചെയ്യുന്ന തൊഴിലാളി നൈപുണ്യ തലത്തിലേക്ക് വരില്ല അതിനാൽ നമ്മൾ അത് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബൂഷൻ ഉപയോഗിച്ച് ഡിഫെക്ടിവ് റിഫ്ലക്ഷൻ നാം കണ്ടെത്തേണ്ടതുണ്ട് കാരണം ഇവ എല്ലായ്പ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ 100 ൽ 2 ആണ് അതാണ് നമുക്ക് വിജയവും വിജയിക്കാത്തതും ഈ രീതിയിൽ പരിവർത്തനം ചെയ്യപ്പെട്ടതെന്ന് പറയാൻ കഴിയും അടുത്തത് ലോഗ് നോർമൽ ഡിസ്ട്രിബൂഷൻ ആണ് അത് പരാജയം അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി പ്രോജെക്ഷൻസിനെ കാണിക്കുന്നു ഇവിടെ ഇവന്റുകളുടെ ഫലങ്ങൾ വിതരണത്തിന്റെ തീവ്രതയിലേക്ക് തിരിയുന്നു ഇതിന്റെ PDF എങ്ങിനെ കാല്കുലേറ്റു ചെയുന്നു എന്ന് നോക്കാം PDF 1xσ2πe ln x μ220 σ Standard deviation µ Mean ഇപ്പോൾ ഇവിടെ പാരാമീറ്ററുകൾ എന്തൊക്കെയാണ് ഇവിടെ 'x' ഒരു റാൻഡം വേരിയബിൾ ആണ് '𝛍' എന്നത് mean '𝞂' സ്റ്റാൻഡേർഡ് ഡീവിയേഷൻആണ് ഇപ്പോൾ ഇവിടെ സ്ഥിരതയുള്ള 'e' '𝝿' കോൺസ്റ്റന്റ്സ് ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ പിന്നീട് കുറച്ച് അളവുകൾ എടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നീളം ഉയരം എങ്കിൽ നിങ്ങൾക്കു മിക്കവാറും ലോഗ് നോർമൽ ഡിസ്ട്രിബൂഷനോട് സാമ്യമുള്ള ഡാറ്റാ ആയിരിക്കും ലഭിക്കുന്നത് ഫൈനൈറ്റ് സംഖ്യകൾക്കു നമ്മുടെ വേരിയബിൾ x നു '0' മുതൽ ഇൻഫിനിറ്റി '∞' വരെ വ്യത്യാസപ്പെടാം എന്നാൽ ഞാൻ ഇവിടെ 0 മുതൽ 2 5 വരെ എടുക്കുന്നു അതിനാൽ വ്യതിയാനത്തെ ആശ്രയിച്ച് വ്യത്യസ്ത തരം സ്ക്യുവ്നെസ് ലെവലിനായി എനിക്ക് വ്യത്യസ്ത തരം നിറങ്ങൾ നൽകാൻ കഴിയും ഞാൻ '𝛍' 0 ആയി എടുക്കും സിഗ്മയുടെ𝞂 മൂല്യം ആദ്യം 1 ന് തുല്യമാണ് ഗ്രാഫ് ഇതുപോലെയാകും വീണ്ടും പോസിറ്റീവായി വളഞ്ഞതും പിന്നെ വളരെയധികം വളഞ്ഞതും അതിനാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസിലാക്കാൻ നിങ്ങൾ കാലിബ്രേഷൻ ആരംഭിക്കുകയാണെങ്കിൽ ഗേജ് ബ്ലോക്ക് കാലിബ്രേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക ഒരു ഗേജ് ബ്ലോക്കിലെ ആവർത്തിച്ചുള്ള ഘട്ടത്തിൽ നിങ്ങൾക്ക് അളവുകൾ കണക്കാക്കാം ഇത് നിങ്ങളുടെ അളവുകളിൽ ഭൂരിഭാഗവും ആകാം അല്ലെങ്കിൽ അളക്കൽ ഫലങ്ങൾ ഗേജ് ബ്ലോക്കിന്റെ യഥാർത്ഥ നീളത്തിൽ കേന്ദ്രമായിരിക്കും ചില അളവുകൾ അതിനേക്കാൾ വലുതായിരിക്കും ചിലത് അതിനേക്കാൾ കുറവായിരിക്കും അതിനാൽ മിക്ക നിരീക്ഷണവും ഈ ഗേജ് ബ്ലോക്കിന് സമീപമായിരിക്കും അതിനാൽ ഗേജ് ബ്ലോക്കിന്റെ ദൈർഘ്യം നമ്മൾ ഇവിടെ പരിമിതപ്പെടുത്തുന്നു യഥാർത്ഥത്തിൽ നമുക്കു ബ്ലോക്കിന്റെ ദൈർഘ്യത്തേക്കാൾ കുറവായി വാല്യൂ കണക്കാക്കാൻ കഴിയില്ല ഇവിടെ അളക്കലും പരിമിതമാണ് അതിനാൽ ലോഗ് നോർമൽ വിതരണം പരിഗണിക്കുന്നതിന് കാല്കുലേറ്റു ചെയ്യണ്ട ഡാറ്റ പരിമിതപ്പെടുത്തണം അതിനാൽ പിശകുകൾ നേരിടുന്നതിൽ നിന്നും അനിശ്ചിതത്വങ്ങൾ കണക്കാക്കുന്നതിൽ നിന്നും ഇത് ഞങ്ങളെ തടഞ്ഞേക്കാം അതിനാൽ സിഗ്മ 𝞂 1 ന് തുല്യവും mu'𝛍' 0 ന് തുല്യവുമാണെങ്കിൽ ഇതിന് ഈ രൂപം എടുക്കാം സിഗ്മ 𝞂 എന്നാൽ ഷേപ്പ് പാരാമീറ്റർ സിഗ്മ 𝞂 എന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഷേപ്പ് പാരാമീറ്റർ പ്രകാരം ഞാൻ ഉദ്ദേശിക്കുന്നത് ആകാരം നിർണ്ണയിക്കപ്പെടുന്നു അതിനാൽ നമുക്ക് അത് കാണാൻ കഴിയും അതിനാൽ സിഗ്മ 𝞂 1 ന് തുല്യവും mu '𝛍' 0 ന് തുല്യവുമാകുമ്പോൾ കിട്ടുന്ന ആകൃതിയാണ് കാണിച്ചിരിക്കുന്നത് അത് നിർണ്ണയിക്കുന്ന ലോഗ് നോർമൽ ഡിസ്ട്രിബൂഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി ഇത് മാറുന്നു അതിനാൽ നിലവിലെ ഡാറ്റ ഉപയോഗിച്ച് എപ്പോഴെങ്കിലും നമുക്ക് ഇത് കണക്കാക്കാം അതിനാൽ ഷേപ്പ് പാരാമീറ്റർ ഗ്രാഫിന്റെ സ്ഥാനമോ ഉയരമോ മാറ്റില്ല എന്താണ് ലൊക്കേഷൻ മാറ്റുന്നത് മീഡിയൻ ഇവിടെ ലൊക്കേഷൻ പാരാമീറ്ററാണ് കൂടാതെ ഗ്രാഫ് എങ്ങനെ ചുരുങ്ങുന്നു അല്ലെങ്കിൽ നീട്ടാൻ കഴിയുമെന്ന് നിർണ്ണയിക്കാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് മീഡിയൻ ഉപയോഗിക്കാം അതിനാൽ സിഗ്മയുടെ 𝞂 മൂല്യം 0 5 ന് തുല്യവും mu'𝛍' 0 വും ആണെങ്കിൽ അത് സ്കൈനെസിന് തുല്യമാണ് എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യഥാർത്ഥത്തിൽ മൂല്യം വ്യാപിപ്പിക്കുന്നു അതിനാൽ ഈ വ്യാപനം അല്ലെങ്കിൽ സ്പ്രെഡ് മൂല്യങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ സ്പ്രെഡ് ചുരുങ്ങും അതിനാൽ നമ്മൾ എന്ത് കാണും 0 മുതൽ 2 5 വരെ നമുക്ക് ഇതുപോലുള്ള ഒരു വിതരണമുണ്ട് അതിനാൽ എനിക്ക് ഒരു കർവ് കൂടി ഉണ്ടാക്കാൻ കഴിയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0 25 ന് തുല്യവും 𝛍 0 ന് തുല്യവുമാണെങ്കിൽ ഈ കർവ് കൂടുതൽ ചുരുങ്ങും ഇത് കൂടുതൽ അടുക്കും എന്നാൽ ഇതുപോലുള്ള ചിലത് ഉണ്ടാകും കാരണം പ്രദേശം എല്ലായ്പ്പോഴും ചുരുങ്ങേണ്ടതുണ്ട് പക്ഷേ ഇപ്പോൾ അത് ഉയരമായിരിക്കും

ചുവപ്പ് നീല കടും നീല വളവിന് താഴെയുള്ള ഏകദേശ പ്രദേശം നിങ്ങൾക്ക് കാണാൻ കഴിയും സിഗ്മയുടെ 𝞂 മൂല്യവും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാരണം ഇവിടെ വളവ് ചുരുങ്ങുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അടുത്തത് വരുന്നത് റെക്ടറാങ്കുലർ ഡിസ്ട്രിബൂഷൻ ആണ് മിനിമം മൂല്യമായ 'a' യും പരിധിക്ക് തുല്യമായ പ്രോബബിലിറ്റിയോടെ സംഭവിക്കുന്ന പരമാവധി മൂല്യമായ 'b' യും തമ്മിലുള്ള പരിധിയിൽ വരാൻ സാധ്യതയുള്ള പ്രക്രിയകൾക്കു റെക്ടറാങ്കുലർ ഡിസ്ട്രിബൂഷൻ ഉപയോഗിക്കുന്നു അതിനാൽ ചിലപ്പോഴൊക്കെ നമുക്ക് ചില ഡാറ്റകളുണ്ടെങ്കിലോ കുറച്ച് നിരീക്ഷണമുണ്ടെങ്കിലോ അത് ഏത് തരത്തിലുള്ള ഡിസ്ട്രിബൂഷൻ പിന്തുടരുമെന്ന് നമുക്ക് ഉറപ്പില്ല മിനിമം മൂല്യം a ന് തുല്യമാണെന്നും പരമാവധി മൂല്യം b ന് തുല്യമാണെന്നും നമ്മൾ ക്കറിയാം ഇത് ഒരു യൂണിഫോം വിതരണമാണ് അതിനെ നമ്മൾ റെക്ടറാങ്കുലർ ഡിസ്ട്രിബൂഷൻ എന്ന് വിളിക്കുന്നു ഇത് ഇതുപോലെ പ്ലോട്ട് ചെയ്യാം ഇത് റെക്ടറാങ്കുലർ ഡിസ്ട്രിബൂഷൻ ആണ് "a" പരമാവധി മൂല്യം b ഏറ്റവും കുറഞ്ഞ മൂല്യം എന്നിങ്ങനെ ഇതിലൂടെ നൽകാം a PDF എന്നത് 1 നെ b a കൊണ്ട് ഹരിക്കുന്നു x a b എന്നിവയ്ക്കിടയിലാണെങ്കിൽ ഈ PDF 0 ആണ് അതിനാൽ ബാഹ്യരേഖകളാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ മൂല്യവും പരമാവധി മൂല്യവും നമ്മൾക്കറിയാം ബാഹ്യരേഖകൾ 0 ആണെങ്കിൽ PDF 0 ആയി എടുക്കും ഏറ്റവും കുറഞ്ഞ മൂല്യം എന്നാൽ ഇത് a നും b നും ഇടയിലാണെങ്കിൽ റെക്ടറാങ്കുലർ ഡിസ്ട്രിബൂഷൻ ഉപയോഗിക്കാം ഇപ്പോൾ റോളിംഗ് സിംഗിൾ ഡൈ എന്നത് ഒരു ഏകീകൃത വിതരണത്തിന്റെ ഉദാഹരണമാണ് പക്ഷേ ഇവിടെ തുടർച്ചയായുള്ള വിതരണങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാണ് സാധ്യമായ ഒരു ഫലം മിനിമം പരമാവധി പരിധിയിൽ വരുന്ന പ്രക്രിയകൾ അതിനാൽ ഇതിന്റെ ഏറ്റവും സാധാരണ ഉദാഹരണം ഇപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു വിവരവും ഇല്ലാത്തതുമായ കാര്യങ്ങൾഉദാഹരണത്തിന് ദിവസം ഒരു വർഷത്തിലെ ഏറ്റവും ചൂടേറിയ ദിവസത്തിന്റെ ആഴ്ച ഏതാണ്ട് 7 ദിവസങ്ങളിൽ ഏതെങ്കിലും ആകാൻ സാധ്യതയുണ്ട് അതിനാൽ അളവെടുപ്പ് അനിശ്ചിതത്വത്തിൽ അതിന്റെ വിലയിരുത്തൽ നടക്കേണ്ട സമയത്ത് പലപ്പോഴും സംഭവിക്കുന്നത് രണ്ട് ബദലുകൾക്കിടയിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടിവരുമ്പോൾ അവയിൽ ചിലത് അമിതമായി കണക്കാക്കിയ അനിശ്ചിതത്വത്തിലേക്ക് നയിച്ചേക്കാം മറ്റൊന്ന് അനിശ്ചിതത്വത്തെ കുറച്ചുകാണാൻ ഇടയാക്കും അത്തരം സാഹചര്യങ്ങളിൽ അനിശ്ചിതത്വത്തെ കുറച്ചു കാണുന്നതിനേക്കാൾ അൽപ്പം അമിതമായി വിലയിരുത്തുന്നത് സാധാരണയായി ന്യായമാണ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് റെക്ടറാങ്കുലർ ഡിസ്ട്രിബൂഷൻ ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഗോ നോ ഗോ ഗേജ് ഉപയോഗിച്ച സമയത്ത് ഉയർന്ന പരിധിയിലുള്ള മുകളിലെ ടോളറൻസുകൾ അളക്കുന്നതിലൂടെ റെക്ടറാങ്കുലർ ഡിസ്ട്രിബൂഷൻമാണ് അഭികാമ്യം റെക്ടറാങ്കുലർ ഡിസ്ട്രിബൂഷൻ പോലുള്ള മറ്റൊരു വിതരണമാണിത് ട്രയൻങ്കുലർ ഡിസ്ട്രിബൂഷനിലും നമുക്ക് വളരെയധികം ഡാറ്റ ഇല്ല ഈ ഒരു മൂല്യം മോഡ് മൂല്യമാണ് പീക്ക് വാല്യു മോഡിനൊപ്പം അറിയപ്പെടുന്ന ലോവർ ബൌണ്ട് a അപ്പർ ബൌണ്ട് b എന്നിവയ്ക്കിടയിലുള്ള ഫലം x വീഴുമ്പോൾ ഈ വിതരണം ഉപയോഗിക്കാം ഇത് സാധാരണയായി ജനസംഖ്യാ വിവരങ്ങൾ കുറവായിരിക്കുമ്പോൾ ഉപയോഗിക്കുന്നു ജനസംഖ്യയെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇല്ല എന്നാൽ നമുക്ക് കുറഞ്ഞ മൂല്യവും ഉയർന്ന മൂല്യവുമുണ്ട്

അതിനാൽ ഇത് ഇതുപോലെയാകാം മൂല്യം a മൂല്യം d മോഡ് മൂല്യം c എന്നാണ് ഞാൻ ഇതിനെ വിളിക്കുന്നത് ഇത് ഒരു ത്രികോണത്തിന്റെ ആകൃതി എടുക്കുന്നു അതിനാലാണ് ഇതിനെ ട്രയൻങ്കുലർ ഡിസ്ട്രിബൂഷൻ എന്ന് വിളിക്കുന്നത് അതിനാൽ ഇതിനായുള്ള PDF പറയുന്നത് ഒരു റെക്ടറാങ്കുലർ ഡിസ്ട്രിബൂഷനേക്കാൾ 04x ന് തുല്യമാണ് ഇത് 2X മോഡ് c കുറഞ്ഞ മൂല്യം a ഉയർന്ന മൂല്യം b അപ്പർ ബൌണ്ട് b ലോവർ ബൌണ്ട് a എന്നിവയാണ് ഇത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുള്ള PDF ആണ് എയ്ക്ക് X നേക്കാൾ തുല്യമോ കുറവോ അല്ലെങ്കിൽ സി യേക്കാൾ കുറവാണ് a xc അപ്പോൾ ഇത് 2 ഗുണം b മൈനസ് x ബൈ ഗുണം എന്നതാണ് b മുകളിലെ പരിധി ആയതിനാൽ നമുക്ക് b മൈനസ് x എന്ന് എഴുതാം a താഴ്ന്ന പരിധിയിലായിരുന്നു എന്നിരുന്നാലും രണ്ടാം ഭാഗത്ത് x മൈനസ് a മൂന്നാം ഭാഗത്ത് ബി മൈനസ് എക്സ് എന്നിവ ഉണ്ടായിരുന്നു ഇത് സി x നേക്കാൾ കുറവാണ് X b നേക്കാൾ കുറവോ അല്ലെങ്കിൽ തുല്യമാണ് CXb x ബി യേക്കാൾ വലുതാകുമ്പോൾ ഇത് 0 ന് തുല്യമാണ് ഒരെണ്ണം കൂടി x c ന് തുല്യം ആകുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ 2 ബൈ b മൈനസ് a തുല്യമാണ് ഇത് PDF 1 2 3 4 5 കേസുകളാണ് ഇത് ട്രയൻങ്കുലർ ഡിസ്ട്രിബൂഷൻ PDF ആണ് അതിനാൽ പോപുലേഷന്റെ ഡാറ്റയ്ക്കായി വലിയ വിവരങ്ങൾ നമ്മുടെ പക്കലില്ലാത്തപ്പോൾ ട്രയൻങ്കുലർ ഡിസ്ട്രിബൂഷൻ പരമാവധി കുറഞ്ഞതും കണക്കാക്കിയതുമായ കേന്ദ്ര മൂല്യത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ വേരിയബിൾ തമ്മിലുള്ള ബന്ധം അറിയപ്പെടുന്നതാണ് ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് മെട്രോളജി ലാബിൽ ടാർഗെറ്റ് ടെമ്പറേച്ചർ സെറ്റ് പോയിന്റ് നേടാൻ നിരന്തരം ശ്രമിക്കുന്ന തെർമോസ്റ്റാറ്റ് കൺട്രോളർ ഞാൻ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ടാർഗെറ്റ് സെറ്റ് പോയിന്റ് നേടുന്നതിനുള്ള സെറ്റാണ് തെർമോസ്റ്റാറ്റ് കൺട്രോളർ എന്ന് എനിക്ക് ഇവിടെ പറയാൻ കഴിയും ഇത് 30 ഡിഗ്രി സെന്റിഗ്രേഡ് ആണെന്ന് പറയട്ടെ അതായത് മിക്ക മൂല്യവും 30 ഡിഗ്രി സെന്റിഗ്രേഡിനടുത്തായിരിക്കും തെർമോസ്റ്റാറ്റ് നിയന്ത്രണം സജ്ജീകരിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തെർമോസ്റ്റാറ്റ് 30 ഡിഗ്രി സെന്റിഗ്രേഡ് നൽകുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എയർകണ്ടീഷണറിന്റെ തെർമോസ്റ്റാറ്റ് പറയാം എയർകണ്ടീഷണർ താപനില ഇപ്പോൾ 18 ഡിഗ്രിയായി സജ്ജീകരിച്ചിരിക്കുന്നു താപനില ഇവിടെ 22 ഡിഗ്രിയായി സജ്ജീകരിച്ചിരിക്കുന്നു താപനിലയുടെ ഭൂരിഭാഗവും 22 ഡിഗ്രി 22 ഡിഗ്രി കേന്ദ്ര മൂല്യം 21 ഡിഗ്രി 23 ഡിഗ്രി ആകാം അതിനാൽ മൂല്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാകാം എന്നാൽ മിക്കപ്പോഴും മൂല്യം 22 ആണ് എന്താണ് സംഭവിക്കുന്നത് 30 ഡിഗ്രി എടുത്താൽ എനിക്ക് തെർമോസ്റ്റാറ്റ് കൺട്രോളർ സജ്ജമാക്കാൻ കഴിയും എന്നതാണ് മൂല്യം അതിനാൽ അതിന്റെ മൂല്യം 30 ഡിഗ്രി പോലെയാകും 30 ഡിഗ്രി 10 29 30 31 32 പിന്നെ 28 പിന്നെ 30 പിന്നെ 30 പിന്നെ 30 2 3 4 5 6 7 8 9 10 മൂല്യങ്ങൾ എടുക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കാം നിങ്ങൾക്ക് 1 2 3 4 5 എന്ന മൂല്യം ഒരുപാട് തവണ ആവർത്തിക്കുന്നതായി കാണാം 30 ആവർത്തിക്കുന്നത് 7 6 30തു 6 തവണ ആവർത്തിക്കുന്നു ഇവിടെ മൂല്യം ഏറ്റവും കുറഞ്ഞ മൂല്യം 28 ഇവിടെ ബി യുടെ മൂല്യം മുകളിലുള്ള പരിധിയുടെ പരമാവധി ആണ് അതായത് 32 ഉം ഇവിടെ മോഡ് മൂല്യം 30 ഉം ആണ് ഈ സാഹചര്യത്തിൽ ട്രയൻങ്കുലർ ഡിസ്ട്രിബൂഷൻ ഉപയോഗിക്കാം ചിലപ്പോൾ മോഡ് മൂല്യം ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് റെക്ടറാങ്കുലർ ഡിസ്ട്രിബൂഷൻ ഉപയോഗിക്കാം ഇപ്പോൾ ട്രയൻങ്കുലർ റെക്ടറാങ്കുലർ തമ്മിലുള്ള ഈ തിരഞ്ഞെടുപ്പ് നിർണ്ണയിക്കുന്നതെന്താണ് നിങ്ങൾക്ക് ട്രയൻങ്കുലർ Vs റെക്ടറാങ്കുലർ ഡിസ്ട്രിബൂഷൻ എന്ന് ഇടാം അതിനാൽ താരതമ്യപ്പെടുത്തുന്നതിന് മുമ്പ് അൺസെര്ടിനിറ്റി കോണ്ട്രിബ്യുട്ടർ എന്ന പദം അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് എന്താണ് ഉദാഹരണത്തിന് എനിക്ക് 100 മില്ലി അളക്കേണ്ട 100 മില്ലി ഒരു പാത്രം വിപണിയിൽ നിന്ന് ലഭിക്കുന്നു അതിനാൽ ഇത് ഒരു തരം ഗേജ് ആണ് 100 മില്ലി ഞാൻ പാത്രം പൂർണ്ണമായും നിറക്കുകയാണെങ്കിൽ 100 മില്ലി ലിക്വിഡ് ഉണ്ടായിരിക്കണം പക്ഷേ ഈ 100 മില്ലി പ്ലസ് മൈനസ് 100 മില്ലി എന്ന് അടയാളപ്പെടുത്താം അല്ലെങ്കിൽ അത് പ്ലസ് മൈനസ് 5 മില്ലി ആണ് അതിനാൽ ഈ പ്ലസ് മൈനസ് 5 മില്ലി ഇത് എന്റെ അൺ സെര്ടിനിറ്റി കോണ്ട്രിബ്യുട്ടർ ആണ് ഇവ നോൺ സ്പെസിഫിക്കേഷൻ പരിധികളാണ് എന്റെ അളവെടുക്കൽ ഉപകരണത്തിൽ തന്നെ പ്രത്യേക പരിധികളുണ്ട് ഇത് 95 മില്ലി മുതൽ 105 മില്ലി വരെ അളക്കാൻ കഴിയും യഥാർത്ഥ അനിശ്ചിതത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് അൺസെര്ടിനിറ്റി കോണ്ട്രിബ്യുട്ടർ Ui യെ k കൊണ്ട് ഹരിക്കുന്നുന്നതിനു തുല്യമാണ് k എന്റെ വിപുലീകരണ ഘടകമാണ് സാധാരണഗതിയിൽ k യുടെ ഈ മൂല്യം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കാം ഇത് ഇവിടെ Ui യുടെ മൂല്യമാണെന്ന് നമുക്ക് പറയാം ട്രയൻങ്കുലർ ഡിസ്ട്രിബൂഷൻത്തിന്റെ കാര്യത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന Ui യുടെ മൂല്യം 6 ന്റെ റൂട്ട് √6 പ്രകാരം അൺസെര്ടിനിറ്റി കോണ്ട്രിബ്യുട്ടർനു തുല്യമാണ് റെക്ടറാങ്കുലർ ഡിസ്ട്രിബൂഷനാണെങ്കിൽ അത് Ui ബൈ റൂട്ട് 3 √3 ആണ് ഈ വിവരത്തെ അടിസ്ഥാനമാക്കി ഞാൻ ഈ ഡാറ്റ ഉപയോഗിക്കുകയാണെങ്കിൽ 100 മില്ലി ഈ പാത്രം എടുക്കാം 100 മില്ലി ഇത് പ്ലസ് മൈനസ് 5 മില്ലി 5 ml ആണ് അതിനാൽ എനിക്ക് ഈ 100 മില്ലിയെ എന്റെ ശരാശരി മൂല്യമായി വിളിക്കാം മധ്യ മൂല്യത്തിലും പ്ലസ് മൈനസ് 5 വ്യത്യാസത്തിലും ആകാം ഞാൻ ഈ ഡാറ്റാ ഉപയോഗിച്ച് ഒരു റെക്ടറാങ്കുലർ ഡിസ്ട്രിബൂഷനും ട്രയൻങ്കുലർ ഡിസ്ട്രിബൂഷനും പ്ലസ് മൈനസ് 5 മില്ലിയും വരയ്ക്കാൻ ശ്രമിച്ചാൽ ട്രയൻങ്കുലർ ഡിസ്ട്രിബൂഷനായി എനിക്ക് ഇതുപോലൊന്ന് നേടാനാകും അതിനാൽ ഞാൻ a ൽ നിന്ന് b ലേക്ക് ഉയരുമ്പോൾ എനിക്ക് a മുതൽ a വരെയും മധ്യത്തിൽ 0 ആക്കാനും കഴിയും അതിനാൽ ഈ സാഹചര്യത്തിൽ a മുതൽ b വരെ a ന്റെ ഈ മൂല്യം 90 ന് തുല്യമാണ് ഞാൻ 0 5 ഇടുകയാണെങ്കിൽ a ന്റെ മൂല്യം 99 5 ആയി മാറുന്നു എനിക്ക് 100 5 ബി ആയി ഇടാം അതിനാൽ മധ്യ മൂല്യം 100 ആണ് ഇവിടെ ഞാൻ ഇതുപോലുള്ള റെക്ടറാങ്കുലർ ഡിസ്ട്രിബൂഷനണ് പിന്തുടരുന്നത് അതിനാൽ ഇവിടെ എന്റെ Ui എന്താണ് Ui അൺസെര്ടിനിറ്റി കോണ്ട്രിബ്യുട്ടർക്കു തുല്യമാണ് അത് റൂട്ട് 3 ന്√3 കീഴിൽ 0 5 കൊണ്ട് ഹരിക്കുന്നു√35 ഇത് 0 288 ന് തുല്യമാണ് ട്രയൻങ്കുലർ ഡിസ്ട്രിബൂഷനിൽ ഈ ഡാറ്റ 99 5 100 5 എന്നിവ മിക്കപ്പോഴും 100 ആകാം അതിനാൽ ഇതു പോലെയായിരിക്കും എന്നാൽ ഈ സാഹചര്യത്തിൽ റൂട്ട് 6 ന് √6 കീഴിൽ Ui യുടെ മൂല്യം 0 5 അത് 0 204 ന് തുല്യമാണ് അതിനാൽ അൺസെര്ടിനിറ്റി കോണ്ട്രിബ്യുട്ടർനെ ഇവിടെ കണ്ടാൽ അത് ചെറിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വിപുലീകരണ ഘടകം ഉപയോഗിച്ച് കുറയ്ക്കുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് മൂലമാണ് വിപുലീകരണ ഘടകം അതിനാൽ Ui മൂല്യത്തെ അടിസ്ഥാനമാക്കി ഞാൻ ട്രയൻങ്കുലർ ഡിസ്ട്രിബൂഷൻ തിരഞ്ഞെടുക്കും നമുക്ക് 100 മില്ലി എടുക്കേണ്ടിവന്നാൽ അമിതമായി കണക്കാക്കുന്നത് ന്യായമാണ് പക്ഷേ ഞങ്ങൾക്ക് 100 മില്ലിയിൽ താഴെ താങ്ങാൻ കഴിയില്ല ഇങ്ങിനെ ഉള്ള കേസുകളിൽ നമുക്കു റെക്ടറാങ്കുലർ ഡിസ്ട്രിബൂഷൻ തിരഞ്ഞെടുക്കാം ഉദാഹരണത്തിന് നമ്മൾ പാൽ കച്ചവടക്കാരനെ പ്പോലെയാണെങ്കിൽ ഈ 100 മില്ലി പാത്രം ഉപയോഗിച്ച് അളക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ 100 മില്ലി വെള്ളം ആവശ്യമുള്ളപ്പോൾ ബാഷ്പീകരണം മൂലവും കുറച്ചു നഷ്ടം സംഭവിക്കാം എന്ന് കാണാം ഇവിടെ കുറച്ചുകാണുന്നത് താങ്ങാനാവില്ല ഇവിടെ 5 മില്ലി അൺസെര്ടിനിറ്റി കോണ്ട്രിബ്യുട്ടർ ആണെങ്കിൽ നമുക്കു 99 5 താങ്ങാൻ കഴിയില്ല പക്ഷേ നമുക്കു 105 താങ്ങാനാവും കാരണം ഇത് സ്വീകാര്യമായ മൂല്യമാണ് അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ റെക്ടറാങ്കുലർ ഡിസ്ട്രിബൂഷൻ തിരഞ്ഞെടുക്കും അടുത്തത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിതരണമാണ് ക്രമരഹിതമായ പിശകിലെ വ്യത്യാസം തുടർച്ചയായ അല്ലെങ്കിൽ പതിവ് ഭൌതിക സവിശേഷതകളിൽ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു PDF 12π2 e x μ222 ഇത് അസിംപ്റ്റോട്ടിക് വിതരണമാണ് അത് അങ്ങേയറ്റത്തെ അറ്റത്ത് അനന്തമാണ് എന്നാൽ ഇതുപോലുള്ള വിതരണത്തിൽ ഇത് സിമെട്രിക്കൽ ആണ് അതിനാൽ ഇത് നോർമൽ ഡിസ്ട്രിബൂഷൻ ആണ് നമുക്കു 100 അളവുകൾ സാമ്പിളുകൾ ശേഖരിക്കാനും നമ്മുടെ ഫലങ്ങൾക്കൊപ്പം ഒരു ഹിസ്റ്റോഗ്രാം ഗ്രാഫ് സൃഷ്ടിക്കാനും കഴിയും ഇതുപോലുള്ള 100 ഹിസ്റ്റോഗ്രാമുകൾ ഞാൻ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അവയുടെ ആവൃത്തി നോർമൽ ഡിസ്ട്രിബൂഷനെ പിന്തുടരുമെന്ന് നമുക്ക് കാണാൻ കഴിയും ദൈർഘ്യം ഭാരം ശക്തി എന്നിവയാണ് ഉദാഹരണങ്ങൾ ഇതാണ് ഞങ്ങളുടെ നോർമൽ ഡിസ്ട്രിബൂഷൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുകളെക്കുറിച്ച് മികച്ച ആശയം ലഭിക്കുന്നതിന് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി വിതരണങ്ങളെക്കുറിച്ചും തുടർച്ചയായ പ്രോബബിലിറ്റി വിതരണങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു ലോഗ് നോർമൽ നോർമൽ വിതരണത്തെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുകയും അവയിലുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അടുത്ത പ്രഭാഷണത്തിൽ നമുക്കു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം